ഈ വീഡിയോയിൽ നമ്മൾ ചില പ്രോബ്ലെംസ് ചെയ്യാൻ പോകുന്നു അതിനാൽ കോഴ്സിൽ ഇതുവരെ നമ്മൾ റിങ്ങുകൾ റിങ്ങുകളുടെ നിർവചനം റിങ്ങുകളുടെ ഉദാഹരണങ്ങൾ റിങ്ങുകളുടെ ഹോമോമോർഫിസം തുടർന്ന് ഐഡിയൽസ് എന്നിവ പഠിച്ചു വിഷയം നന്നായി പഠിക്കാൻ നിങ്ങൾ ധാരാളം പ്രോബ്ലെംസ് ചെയ്യണം ഇന്ന് ചില പ്രോബ്ലെംസിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം ഈ പ്രോബ്ലെംസ് എങ്ങനെ പരിഹരിക്കാമെന്ന് ഞാൻ വിശദമായി വിശദീകരിക്കാൻ ശ്രമിക്കും മെറ്റീരിയൽ വളരെയധികം മനസ്സിലാക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും ഇന്നത്തെ വീഡിയോ പ്രോബ്ലെംസ്ക്കുറിച്ചുള്ളതാണ് റിങ്ങുകളുടെ നിർവചനത്തെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും ആരംഭിക്കാം ഇനിപ്പറയുന്നവയിൽ ഏതാണ് റിങ്ങുകളെന്ന് ചോദ്യം നമ്മൾ നിങ്ങൾക്ക് കുറച്ച് സെറ്റുകൾ നൽകും അവ റിങ്ങുകളാണോ അല്ലയോ എന്ന് നമ്മൾ തീരുമാനിക്കും ഇനിപ്പറയുന്ന സെറ്റ് നോക്കാം a b എന്നിവ ഇന്റിജേഴ്സ്കളുള്ള aib യഥാർത്ഥത്തിൽ ഇത് C റിങ്ങിന്റെ ഒരു സബ് റിങ്ങാണ് 1 ന്റെ സ്ക്വയർ റൂട്ട് ആണ് i എന്ന് ഞാൻ ഓർക്കുന്നു i ഒരു ഇമേജിനറി കോംപ്ലക്സ് സംഖ്യയാണ് ഞാൻ aib നോക്കുകയാണ് അവിടെ a b ഇന്റിജേഴ്സ്കളാണ് വാസ്തവത്തിൽ മുമ്പ് ഈ ഉദാഹരണം ചർച്ച ചെയ്തിട്ടുണ്ട് ഇതൊരു റിങ്ങാണ് എന്തുകൊണ്ട് പെട്ടെന്ന് ഓർമ്മിക്കാൻ അനുവദിക്കുക എന്നിട്ട് നമ്മൾ മറ്റ് പ്രശ്നങ്ങളിലേക്ക് നീങ്ങും ഇവിടെ സെറ്റ് പ്രോഡക്റ്റുകൾക്കും തുകകൾക്കും കീഴിൽ ക്ലോസ്ഡ് ആണെന്നും അഡിറ്റീവ് ഇൻവേഴ്സുകളുണ്ടോ എന്നും ഗുണിത ഐഡന്റിറ്റി ഉണ്ടോ എന്നും പരിശോധിക്കുന്നു നിങ്ങൾ വ്യക്തമായി അത്തരം രണ്ട് കാര്യങ്ങൾ ചേർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് acibd ശരിയായി ലഭിക്കും തീർച്ചയായും ac bd ഇന്റിജേഴ്സ്കളാണ് കൂടുതൽ രസകരമെന്നു പറയട്ടെ നിങ്ങൾ ഏതെങ്കിലും എലെമെന്റ്സ്കളുടെ പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ac - bd iadbc ലഭിക്കും നിങ്ങൾ ഈ R R എന്ന് വിളിക്കുകയാണെങ്കിൽ ഇത് സെറ്റിലും ഉണ്ട് പരിശോധിക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കും മറ്റ് വ്യവസ്ഥകൾ പരിശോധിക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കും മറ്റ് വ്യവസ്ഥകളും പരിശോധിക്കാൻ എളുപ്പമാണ് സാധാരണയായി പരിശോധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ പ്രോഡക്റ്റും ഐഡന്റിറ്റി എലെമെന്റും ഇൻവെർസുകളുമാണ് 1 എന്ന ഐഡന്റിറ്റി എലെമെന്റ് അവിടെയുണ്ട് ഇത് ശരിയായ രൂപത്തിലാണ് R ഒരു റിങ്ങാണ് അതിനെ "ഗോസിയൻ ഇന്റിജേഴ്സ് " എന്ന് വിളിക്കുന്നു ഗോസിയൻ ഇന്റിജേഴ്സ്കളുടെ റിങ് അതിനെ Zi സൂചിപ്പിക്കുന്നു ഇത് നമ്മൾക്ക് പരിചിതമായ ഒരു റിങ്ങാണ് ഇന്ന് വീഡിയോയിൽ നമ്മൾ പിന്നീട് ഈ റിംഗിലേക്ക് മടങ്ങും നമുക്ക് മറ്റൊരു റിങ് നോക്കാം R ഇവയെല്ലാം ഞാൻ സൂചിപ്പിക്കുന്നത് തുടരും ഇത് രണ്ടാമത്തെ റിങ് നമുക്ക് പകരം ഇപ്പോൾ a എടുക്കാം ഞാൻ റൂട്ട് 2 എടുക്കാൻ പോകുന്നു ഞാൻ Z ൽ ഒരു b സൂക്ഷിക്കും ഇത് വാസ്തവത്തിൽ ഇപ്പോൾ R ന്റെ ഒരു സബ് റിങ്ങാണ് R ന്റെ സബ്സെറ്റ് ഇത് ഒരു റിങ്ങാണോ അല്ലയോ എന്ന് നമ്മൾ ഇപ്പോഴും നിർണ്ണയിക്കേണ്ടതുണ്ട് a b എന്നിവ ഇന്റിജേഴ്സ്കളുള്ള a b2 എന്ന ഫോമിന്റെ റിയൽ സംഖ്യകൾ ഞാൻ എടുക്കുന്നു ഇത് ഒരു റിങ്ങാണോ acbd√2 ആണെന്ന് തുക എളുപ്പത്തിൽ പരിശോധിക്കാം R ൽ ഉള്ള ഒരു പ്രശ്നവുമില്ല നമുക്ക് ഉൽപ്പന്നം a b √2 തവണ c d √2 പരിശോധിക്കാം ഇത് ഇപ്പോൾ √2 മടങ്ങ് √2 2 ആണ് ഇത് ac ആയിരിക്കും bd തവണ 2 അത് എസി 2 ബിഡിയും √2 ടേം ad bc ആയിരിക്കും ഇതും R ലാണ് മറ്റ് നിബന്ധനകളും എളുപ്പമാണ് ഞാൻ നിങ്ങൾക്കായി പോകാൻ പോകുന്നു ഞാൻ പറഞ്ഞതുപോലെ നിർണായക കാര്യം പ്രോഡക്റ്റാണ് R ഒരു റിങ്ങാണ് നമ്മൾ ഇത് സൂചിപ്പിക്കുന്നു മുമ്പത്തെ നൊട്ടേഷനെ പിന്തുടർന്ന് നമ്മൾ Z√2 ഇനിപ്പറയുന്നവ നോക്കാം ഇവിടെ ഞാൻ അവസാന രണ്ട് പരീക്ഷാ പ്ലേകളിലെ i √2 എന്നിവ 1 കൊണ്ട് 2 കൊണ്ട് മാറ്റിസ്ഥാപിക്കും നമുക്ക് a b2 കൊണ്ട് പറയാം a b എന്നിവ Z ലാണ് ഇത് യഥാർത്ഥത്തിൽ റാഷണൽ സംഖ്യകൾക്കുള്ളിലാണ് ഇപ്പോൾ അവ ഓരോന്നും ഒരു റാഷണൽ സംഖ്യയാണെന്ന് എഴുതുക ഇത് ഒരു റിങ്ങാണോ ആദ്യം നമുക്ക് ചെയ്യാം ഇത് യഥാർത്ഥത്തിൽ ഒരു പ്രശ്നമല്ല കാരണം ഇത് a c b d 2 ആകും ഇത് R ലാണ് ഇത് ശരിയാണ് ഇത് നല്ലതാണ് പ്രൊഡക്ടിന്റെ കാര്യമോ ഇപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ നമ്മൾ ചില പ്രശ്നങ്ങളിൽ പെടും കാരണം നിങ്ങൾ ഇവയെ ഗുണിച്ചാൽ നിങ്ങൾക്ക് ad2 bc2 ലഭിക്കും ഒരു പ്രശ്നവുമില്ല പക്ഷേ അടുത്ത ടേം bd4 ആയിരിക്കും ഇപ്പോൾ ഇത് R ന്റെ ഒരു ഘടകമാണോ നിങ്ങൾക്ക് ഇത് a എന്തോ ഒരു സംഖ്യയും മറ്റൊരു സംഖ്യയെ 2 കൊണ്ട് ഹരിക്കാമോ ഇതിനെ ചില x y എന്ന് 2 കൊണ്ട് എഴുതാൻ കഴിയുമോ ഇവിടെ x y എന്നിവ ഇന്റിജേഴ്സ്കളുള്ളതിന് തുല്യമാണ് നിങ്ങൾക്ക് തീർച്ചയായും കഴിയില്ല അതാണ് കാര്യം കാരണം നിങ്ങൾ ഇത് ഇതുപോലെ എഴുതിയാൽ ഡിനോമിനേറ്റർ 2 ആയിരിക്കും നിങ്ങൾ അവയെ ചേർത്ത് ഒരൊറ്റ റാഷണൽ സംഖ്യയായി എഴുതുകയാണെങ്കിൽ അതേസമയം ഡിനോമിനേറ്റർ 4 നൽകിയിട്ടുണ്ടെങ്കിൽ bd2 റദ്ദാക്കാൻ പോകുന്നില്ല ഉദാഹരണത്തിന് ഇത് പൊതുവേ സാധ്യമല്ല ഞാൻ എഴുതാം ഇത് പൊതുവേ സാധ്യമല്ല ഞാൻ ചിത്രീകരിക്കാൻ പോകുന്നു എന്തെങ്കിലും സംഭവിക്കുന്നില്ല അല്ലെങ്കിൽ ചില പ്രോപ്പർട്ടി തൃപ്തികരമല്ല അല്ലെങ്കിൽ എന്തെങ്കിലും റിങ് അല്ലെന്ന് നിങ്ങൾ പറഞ്ഞാൽ ആ പ്രത്യേക ഉദാഹരണത്തിൽ പ്രോപ്പർട്ടി പരാജയപ്പെടുന്നുവെന്ന് കാണിക്കുന്നതിന് നിങ്ങൾ ഒരു ഉദാഹരണം നൽകണം ഉദാഹരണം 12 R കാരണം 12 എന്നത് 0 12 രൂപത്തിലാണ് എന്നാൽ ½2 ¼ R ഇൽ ഇല്ല R ഒരു റിങ് ആണെങ്കിൽ ½2 R ന് ഉള്ളിൽ ആയിരിക്കണം എന്നാൽ ¼ a b2 ആയി എഴുതാൻ കഴിയില്ല അത് പരിശോധിക്കാൻ വളരെ എളുപ്പമാണ് ¼ R ൽ ഇല്ല R ഒരു റിംഗ് അല്ല ഈ പ്രത്യേക പോയിന്റ് ഒരു എക്സ്സർസൈസ് ആയി ഞാൻ നിങ്ങൾക്കായി വിടുന്നു പരിശോധിക്കാൻ പ്രയാസമില്ല ഈ പ്രോപ്പർട്ടിയിൽ a b എന്നിവയുണ്ട് എന്ന് കരുതുക ab2 ¼ നിങ്ങൾ റദ്ദാക്കുന്നു ഞാൻ അർത്ഥമാക്കുന്നത് നിങ്ങൾ ഗുണിച്ച് കടന്ന് ഒരു പ്രശ്നമുണ്ടോയെന്ന് പരിശോധിക്കുക കാരണം ഒരു വശത്തെ 2 കൊണ്ട് ഹരിക്കാം ഒരു വശം കൊണ്ട് ഹരിക്കാം 4 നിങ്ങൾക്ക് ചില വൈരുദ്ധ്യങ്ങളുണ്ട് R ഒരു റിങ് അല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും എടുക്കുന്നതിൽ നിങ്ങൾ ശ്രദ്ധാലുവായിരിക്കണമെന്ന് ഈ ഉദാഹരണം കാണിക്കുന്നു ഈ ഉദാഹരണത്തിൽ നിങ്ങൾ a ib അല്ലെങ്കിൽ ഈ ഉദാഹരണത്തിൽ a b√2 എടുക്കുകയാണെങ്കിൽ നിങ്ങൾ നന്നായിരിക്കും എന്നാൽ a b2 നിങ്ങൾക്ക് ഒരു റിങ് നൽകാൻ പോകുന്നില്ല ഈ മൂന്നാമത്തെ ഉദാഹരണത്തിലെ ബുദ്ധിമുട്ട് ½ ½ ¼ ഈ സെറ്റിനുള്ളിൽ ഇല്ല അതേസമയം √2 തവണ √2 ഈ സെറ്റിലും വീണ്ടും ഉണ്ട് ഞാൻ ഈ സെറ്റുകളിൽ വീണ്ടും എത്തി ഈ 3 ഉദാഹരണങ്ങൾക്കിടയിലുള്ള വ്യത്യാസം അതാണ് നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇതെല്ലാം യഥാർത്ഥത്തിൽ തന്നെ ഈ ചോദ്യം എന്തെങ്കിലും ഒരു റിങ് ആണോ എന്നതിനെക്കുറിച്ചാണ് പക്ഷേ അവ സബ് റിങ്ങുകളെക്കുറിച്ചുള്ള ചോദ്യങ്ങളായി കണക്കാക്കാം അറിയപ്പെടുന്ന റിങ്ങുകളുടെ സബ്സെറ്റുകൾ ഞാൻ നിങ്ങൾക്ക് നൽകി ആദ്യത്തേത് കോംപ്ലക്സ് സംഖ്യകളുടെ ഒരു സബ്സെറ്റാണ് ചോദ്യം ഇത് ഒരു സബ് റിങ്ങാണോ ആ ചോദ്യത്തിനുള്ള ഉത്തരവും R ഒരു റിങ്ങാണോ അല്ലയോ എന്ന ചോദ്യത്തിന് സമാനമാണ് കാരണം ഒരു സബ്റിങ് ഒരേ പ്രവർത്തനങ്ങളുള്ള ഒരു റിങ് മാത്രമാണ് ഇവിടെ C യുടെ പ്രവർത്തനം പോലെ തന്നെ നമ്മൾ അതേ ഓപ്പറേഷനുകൾ എടുക്കുന്നു അതുപോലെ ഇവിടെ R എന്നത് R ന്റെ ഒരു സബ്സെറ്റാണ് അത് R ന്റെ സബ് റിങ്ങായി മാറുന്നു ഇവിടെ R എന്നത് Q യുടെ ഒരു സബ്സെറ്റാണ് മാത്രമല്ല ഇത് ഒരു സബ് റിങ്ങല്ല R ഇപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് പോളിനോമിയൽ റിംഗ് ശരിയാണെന്ന് പറയാം R ഗുണകങ്ങളുള്ള X ലെ പോളിനോമിയലുകളാണിത് ഇവ റിയൽ സംഖ്യ പോളിനോമിയലുകളാണ് എക്സ് എന്ന് വിളിക്കുന്ന ഒരു വേരിയബിളിലെ റിയൽ പോളിനോമിയലുകൾ ഇതിൽ നമുക്ക് Rx ലെ f ന്റെ സബ്സെറ്റ് നോക്കാം X ന്റെ f ഡിഗ്രി 3 ശരിയിൽ കുറവോ തുല്യമോ ആണ് ഡിഗ്രി പരമാവധി 3 ഉള്ള എല്ലാ പോളിനോമിയലുകളും ഞാൻ ഇവിടെ എടുക്കുന്നു ഉദാഹരണത്തിന് x3 R ഇൽ ഉണ്ട് x4 ന് ഡിഗ്രി 4 ഉണ്ട് ഇത് R നുള്ളിൽ ആകാൻ കഴിയില്ല ഇപ്പോൾ ഇത് ഒരു റിങ്ങാണോ അത് ഒരു ചോദ്യമാണ് അത് അല്ല അത് ഒരു റിങ് അല്ലെന്ന് നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിയും കാരണം x R ലാണ് പക്ഷേ x4 R ൽ ഇല്ല R ഒരു റിങ് ആണെങ്കിൽ അത് ക്ലോസ്ഡ് ആകെണ്ടതാണ് നിങ്ങൾ സ്വയം 4 തവണ ഗുണിച്ചാൽ നിങ്ങൾക്ക് ഒരു ഘടകമുണ്ട് അത് വീണ്ടും സെറ്റിനുള്ളിലായിരിക്കണം പക്ഷേ അങ്ങനെയല്ല ഇത് ഒരു റിങ് അല്ല ഇത് പരിഷ്ക്കരിക്കാം ഇത് റിംഗ് അല്ല റിയൽ സംഖ്യകളേക്കാൾ പോളിനോമിയൽ റിംഗ് ഉള്ളിൽ ഞാൻ പരിഷ്ക്കരിക്കും R X ഡിഗ്രി f f ന്റെ ഉള്ളിൽ f X നോക്കാം ഞാൻ അസമത്വം വിപരീതമാക്കുകയാണ് ഇവിടെ ഞാൻ കുറഞ്ഞത് 3 ഡിഗ്രി എടുക്കുന്നു ഇത് ഒരു റിങ്ങാണോ ഇതും ഒരു റിങ് അല്ലെന്ന് ഞാൻ അവകാശപ്പെടുന്നു എന്തുകൊണ്ട് ഇത് ഒരു റിങ് അല്ലാത്തതിന് നിരവധി കാരണങ്ങളുണ്ട് ഞാൻ നിങ്ങൾക്ക് രണ്ട് കാരണങ്ങൾ തരാം ഒന്ന് R' അല്ല കാരണം 1 ന്റെ ഡിഗ്രി എന്താണ് ഓർക്കുക 1 എന്നത് കോൺസ്റ്റന്റ് പോളിനോമിയൽ മാത്രമാണ് അതിന്റെ ഡിഗ്രി 0 ആണ് ഒന്ന് R' ഇൽ ഇല്ല കൂടാതെ ഇത് ക്ലോസ്ഡ് അല്ല മറ്റൊരു കാരണം ഉദാഹരണത്തിന് x4 R' ലാണെങ്കിൽ x പവർ x പവർ 4 x സ്ക്വയറിനെ R' ലാണുള്ളത് എന്നാൽ നിങ്ങൾ ഇവ രണ്ടും ചേർത്താൽ ഈ രണ്ടിന്റെയും ആകെത്തുക എന്താണ് ഇവ രണ്ടും ചേർത്താൽ നിങ്ങൾക്ക് x2 ലഭിക്കും ഇത് R ഇൽ ഇല്ല ഇത് എഡിഷന് കീഴിൽ ക്ലോസ്ഡ് അല്ലെന്ന് നിങ്ങൾ കാണുന്നു ഇത് ഒരു റിങ് അല്ല നിങ്ങൾ ഏകപക്ഷീയമായി കുറഞ്ഞത് എന്തെങ്കിലും പറഞ്ഞാൽ അത് ഒരു റിങല്ല നമുക്ക് രണ്ട് ഉദാഹരണങ്ങൾ കൂടി നോക്കാം റാഷണൽ സംഖ്യകൾ അടങ്ങിയ R എന്ന സബ്സെറ്റ് നോക്കാം a b എന്നിവ ഇന്റിജേഴ്സ്കളും ab Q യിലുമാണ് a b എന്നിവയ്ക്ക് പൊതുവായ എലെമെന്റ്സ്കളൊന്നുമില്ലെന്ന് ഞാൻ ഇതിനകം തന്നെ ഊഹിക്കുന്നു നിങ്ങൾ റാഷണൽ നമ്പറുകളുടെ ഒരു ഘടകത്തിൽ a എഴുതുമ്പോഴെല്ലാം നിങ്ങൾ പൊതുവായ എല്ലാ എലെമെന്റ്സ്കളും റദ്ദാക്കും 3 വിഭജിക്കരുത് 3 b നെ വിഭജിക്കുന്നില്ല ഇതാണ് R ഉദാഹരണത്തിന് ½ R ൽ ഉണ്ട് 1 11 ആയതുകൊണ്ട് 1 R ൽ ഉണ്ട് കാരണം 3 1 നെ വിഭജിക്കുന്നില്ല മറുവശത്ത് നിങ്ങൾ 2 എടുത്താൽ അല്ലെങ്കിൽ 36 എടുക്കാം അത് R ൽ ഉണ്ടോ 3 6 നെ വിഭജിക്കുന്നു ഇത് R ൽ ഇല്ലെന്ന് തോന്നുന്നു പക്ഷേ 3 ഡെനോമിനെറ്റർ വിഭജിക്കുന്നുണ്ടോയെന്ന് പരിശോധിക്കുന്നതിന് മുമ്പ് ഓർക്കുക നിങ്ങൾ 36 ലെ കോമൺ ഫാക്ടറുകൾ ക്യാൻസൽ ചെയ്യേണ്ടതുണ്ട് പൊതുവായ എലെമെന്റ്സ്കൾ ക്യാൻസൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ½ ലഭിക്കുന്നു തുടർന്ന് 3 ഡിനോമിനേറ്ററിനെ വിഭജിക്കുന്നില്ല ഇത് R ലാണ് ന്യൂമറേറ്ററിന്റെയും ഡിനോമിനേറ്ററിന്റെയും പൊതുവായ ഘടകം റദ്ദാക്കിയതിനുശേഷം 3 ഡിനോമിനേറ്ററിനെ വിഭജിക്കുന്നുണ്ടോയെന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് കൂടാതെ നിങ്ങൾ പൊതു എലെമെന്റ്സ്കൾ റദ്ദാക്കിയതിനുശേഷം 3 ഡിനോമിനേറ്ററിനെ വിഭജിച്ചില്ലെങ്കിൽ അത് അവിടെയുണ്ട് 3 ഡിനോമിനേറ്ററിനെ വിഭജിച്ചാൽ അത് ശരിയല്ല സെറ്റ് വ്യക്തമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സെറ്റ് ഇതാണ് അതിന് അവിടെ 1 ഉണ്ട് ഇതിന് 0 ഉണ്ട് കാരണം 0 നെ 01 ആയി കണക്കാക്കാം 0 ഉം ഉണ്ട് ഇപ്പോൾ ഇത് ഒരു ചോദ്യമാണ് ഇത് പരിശോധിക്കുന്നതിന് യഥാർത്ഥത്തിൽ ഒരു റിങ്ങിനുള്ള വ്യവസ്ഥകൾ പരിശോധിക്കാം ഇത് ഒരു റിങ്ങാണോ അല്ലയോ എന്ന ചോദ്യചിഹ്നം വീണ്ടും ഓർക്കുക ഇത് Q യുടെ ഒരു സബ് റിങ്ങാണോ എന്ന ചോദ്യത്തിന് തുല്യമാണ് ഇതിന് 0 ഉം 1 ഉം ഉണ്ട് ഇപ്പോൾ നമുക്ക് R ലെ രണ്ട് എലെമെന്റ്സ്കൾ എടുക്കാം അവയുടെ ആകെത്തുക പരിഗണിക്കാം അത് R ലും ഉണ്ടോ എന്ന് നോക്കാം abcd എന്താണ് ഇത് adbcbd യാണ് ഇപ്പോൾ ഇത് R ൽ ഉണ്ടോ R ൽ ab cd എന്നിവ നമുക്കറിയാം ഇപ്പോൾ ഈ അവസ്ഥ സൂചിപ്പിക്കുന്നത് 3 വിഭജിക്കുന്നില്ല 3 d യെയും വിഭജിക്കുന്നില്ല 3 b യെ വിഭജിക്കുന്നില്ല 3 d യെയും വിഭജിക്കുന്നില്ല കാരണം സാധാരണ എലെമെന്റ്സ്കൾ റദ്ദാക്കിയതിനുശേഷം അവയുടെ ലളിതമായ രൂപങ്ങളിൽ ab cd 3 b d എന്നിവ വിഭജിക്കുന്നില്ല 3 എന്നത് ഒരു പ്രൈം നമ്പർ ആയതിനാൽ 3 പ്രൊഡക്ടിനെയും വിഭജിക്കുന്നില്ലെന്ന് സൂചിപ്പിക്കുന്നു ഇത് പ്രൈം നമ്പറുകളുടെ ഒരു പ്രോപ്പർട്ടിയാണെന്ന് കാണുക 3 എന്നത് ഒരു പ്രൈം സംഖ്യയാണ് അത് b d എന്നിവ വിഭജിക്കുന്നില്ല അതിനർത്ഥം 3 bd യും വിഭജിക്കുന്നില്ല ഇപ്പോൾ തുക നോക്കാം ഇപ്പോൾ ഈ ഫോമിൽ 3 ഡിനോമിനേറ്ററിനെ വിഭജിക്കുന്നില്ലെന്ന് എനിക്കറിയാം പക്ഷേ തീർച്ചയായും അത് അതിന്റെ ലളിതമായ രൂപത്തിലായിരിക്കില്ല adbc യും bd യും തമ്മിൽ പൊതുവായ എലെമെന്റ്സ്കളുണ്ടാകാം പക്ഷേ പ്രശ്നമില്ല കാരണം നിങ്ങൾക്ക് പൊതുവായ എലെമെന്റ്സ്കൾ ഇല്ലാതാക്കാൻ കഴിയുമെങ്കിൽ ഡിനോമിനേറ്ററിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് bd യുടെ ഹരണമാണ് bd യെ 3 കൊണ്ട് ഹരിക്കില്ല പൊതുവായ എലെമെന്റ്സ്കൾ റദ്ദാക്കിയ ശേഷം അത് നിലനിൽക്കും അത് ആ പ്രോപ്പർട്ടി നിലനിർത്തും നിങ്ങൾ പൊതുവായ എലെമെന്റ്സ്കൾ റദ്ദാക്കിയതിനുശേഷം 3 വിഭജിക്കില്ല മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ adbcbd R ഇൽ ഉണ്ട് ഈ ചോദ്യത്തിനുള്ള ഉത്തരം അതെ ശരി വീണ്ടും റീക്യാപ്പ് ചെയ്യുന്നതിന് 3 b d എന്നിവ വിഭജിക്കുന്നില്ല 3 bd യെ വിഭജിക്കുന്നില്ല ഇവിടെ 3 എന്നത് ഒരു പ്രൈം നമ്പറാണ് adbcbd യുടെ പൊതുവായ എലെമെന്റ്സ്കൾ റദ്ദാക്കിയതിനുശേഷം പുതിയ ഡിനോമിനേറ്റർ 3 വിഭജിക്കുന്നില്ല ഇത് 3 ന്റെ ഗുണിതമല്ല ab cd R ഇൽ ആണ് അത് നല്ലതാണ് എഡിഷന് കീഴിൽ R ക്ലോസ്ഡ് ആണ് ഇപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് നോക്കാം ഇത് ഗുണനത്തിന് കീഴിൽ ക്ലോസ്ഡ് ആണോ നമുക്ക് വീണ്ടും R ൽ ab cd എടുക്കാം ഇപ്പോൾ നമുക്ക് ab cd എടുക്കാം ഇത് acbd ഇവിടെയും ഡിനോമിനേറ്റർ bd ആണ് മുമ്പത്തെ അതേ കാരണത്താൽ ഇത് 3 കൊണ്ട് ഹരിക്കില്ല പൊതുവായ എലെമെന്റ്സ്കൾ റദ്ദാക്കിയതിനുശേഷം നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇപ്പോഴും 3 കൊണ്ട് ഹരിക്കാനാവില്ല acbd R ൽ ആണ് ഈ അവസ്ഥകൾ പരിശോധിച്ചുകഴിഞ്ഞാൽ ab R ൽ ഉണ്ടെങ്കിൽ ab ഉം R ൽ ആണ് കാരണം 1 ഉള്ളതിനാൽ ab ab R ൽ ഉണ്ട് നമ്മൾ എല്ലാ അവസ്ഥയും പരിശോധിച്ചു അസ്സോസിയേറ്റിവിറ്റി ഡിസ്ട്രിബ്യൂട്ടിവിറ്റി എന്നിവ യാന്ത്രികമായി ശരിയാണ് കാരണം ഇത് Q നുള്ളിൽ ആയതിനാൽ ആവശ്യമായ എല്ലാ ഗുണങ്ങളും ഉണ്ട് R ഒരു റിങ്ങാണ് ഈ ഉദാഹരണം വ്യക്തമാണെന്നും ഇത് കുറച്ചുകൂടി വ്യക്തമാക്കുന്നതിന് ഇത് ചെറുതായി പരിഷ്ക്കരിക്കാമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ ഈ R' എന്ന് വിളിക്കും Q യിൽ ab ക്ക് മുമ്പുള്ളതുപോലെ ഞാൻ എടുക്കും എന്നാൽ 3 എന്ന് പറയുന്നതിനുപകരം 4 b വിഭജിക്കരുത് എന്ന് ഞാൻ പറയും 4 b വിഭജിക്കരുത് നിങ്ങൾ സാധാരണ എലെമെന്റ്സ്കൾ റദ്ദാക്കിയ ശേഷം 4 വിഭജിക്കുന്നില്ലെന്ന് ഇവിടെ ഞാൻ പറയും ഇത് ഒരു റിംഗ് അല്ല കാരണം ½ R' ഇൽ ഉണ്ട് ½ ലളിതമായ രൂപത്തിലാണ് 4 ഡിവൈഡ് 2 അല്ല ½ R' ഇൽ ഉണ്ട് എന്നാൽ നിങ്ങൾ ½2 എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ¼ ലഭിക്കുന്നു 4 4 നെ വിഭജിക്കുന്നു ¼ R' ൽ ഇല്ല R' വീണ്ടും ഒരു റിങ് അല്ല 3 b നെ വിഭജിക്കരുത് എന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ഒരു റിങ് ലഭിച്ചു കാരണം 3 ഒരു പ്രൈം ആണ് Q യിൽ ab p b യെ വിഭജിക്കുന്നില്ല ഇത് ഒരു Rp എന്ന് നിർവചിക്കുക എന്ന് പറഞ്ഞ് ഞാൻ ഇത് അവസാനിപ്പിക്കും Rn നെ എല്ലാ റാഷണൽ സംഖ്യകളായി നിർവചിക്കാം ഇവിടെ n b യെ വിഭജിക്കുന്നില്ല n ഒരു പ്രൈം നമ്പറാണെങ്കിൽ മാത്രമേ Rn ഒരു റിംഗ് ആണ് എന്ന് ഞാൻ അവകാശപ്പെടുകയുള്ളൂ നിങ്ങൾക്ക് ഇത് ഒരു എക്സ്സർസൈസ് ആയി തെളിയിക്കാനാകും ഈ പ്രശ്നത്തിലെ ആശയങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് തെളിയിക്കാനാകും ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം നൽകി n 3 4 എന്നിവയ്ക്ക് തുല്യമാകുമ്പോൾ Rn ന്റെ രണ്ട് ഉദാഹരണങ്ങൾ അതിനാൽ എന്റെ പ്രൈമേഷനിൽ R' R4 ആണ് ഇവിടെ R R3 ആണ് R3 ഒരു റിങ്ങായിരുന്നു നമ്മൾ പരിശോധിച്ചു R4 ഒരു റിങ് ആയിരുന്നില്ല നമ്മൾ പരിശോധിച്ചു ഇപ്പോൾ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു n ഒരു പ്രധാന സംഖ്യയാണെങ്കിൽ മാത്രമേ Rn ഒരു റിങ് എന്ന് തെളിയിക്കൂ n ഒരു പ്രൈം നമ്പറല്ലെങ്കിൽ അതേ ആശയം അത് 2 അക്കങ്ങളുടെ ഒരു പ്രോഡക്റ്റാണ് തുടർന്ന് Rn ഒരു റിങ് അല്ലെന്ന് കാണിക്കുന്നതിന് ½ വരെ ഞാൻ ഇവിടെ ചെയ്തത് നിങ്ങൾക്ക് ഉപയോഗിക്കാം n ഒരു പ്രൈം നമ്പറാണെങ്കിൽ ഇത് തെളിയിക്കാൻ R3 നെക്കുറിച്ചുള്ള പ്രശ്നം ഉപയോഗിക്കുക നിങ്ങൾക്ക് ചെയ്യാനുള്ള നല്ലൊരു എക്സ്സർസൈസ് ആണിത് എന്തെങ്കിലും ഒരു റിങ് ആണോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് ഒരു അന്തിമ കാര്യം കൂടി ചെയ്യാം ഇത് f ഈ ഫോമിന്റെ റാഷണൽ സംഖ്യകളായി നമുക്ക് ഇപ്പോൾ R നോക്കാം ഞാൻ റാഷണൽ സംഖ്യകൾ എടുക്കുന്നു a എന്നത് ഏതെങ്കിലും ഇന്റിജേഴ്സ്യും n ഒരു സ്വാഭാവിക സംഖ്യയുമാണ് ഞാൻ a2n എന്ന ഫോമിന്റെ റാഷണൽ സംഖ്യകൾ എടുക്കുന്നു ഡിനോമിനേറ്റർ മറ്റൊരു തരത്തിൽ 2 ന്റെ പവർ ആയിരിക്കണം ഉദാഹരണത്തിന് 0 020 1 120ആണ് അതുപോലെ ½ R ൽ ഉണ്ട് 32 ഉം R ൽ ഉണ്ട് ¾ R ൽ ഉണ്ട് 116 R ൽ ഉണ്ട് ഇവയെല്ലാം R ന്റെ എലെമെന്റ്കളാണ് മറുവശത്ത് 13 R ൽ ഇല്ല 16 R ൽ ഇല്ല 810 R ൽ ഇല്ല ഇവ R ന്റെ എലെമെന്റ്സ്കളാണ് ഇവ R ൽ ഇല്ല വീണ്ടും പരിശോധന വളരെ വ്യക്തമാണ് R ആയിരിക്കാൻ ലളിതമായ രൂപത്തിൽ തീർച്ചയായും ഞാൻ വീണ്ടും ലളിതമാക്കേണ്ടതുണ്ട് 810 ഇവിടെയുള്ള പൊതു എലെമെന്റ്സ്കൾ റദ്ദാക്കാം നിങ്ങൾക്ക് 45 ലഭിക്കുന്നു നിങ്ങൾ പൊതു എലെമെന്റ്കൾ റദ്ദാക്കിയ ശേഷം അവശേഷിക്കുന്നത് അവശേഷിക്കുന്നവയുടെ ഡിനോമിനേറ്റർ 2 ന്റെ പവർ ആയിരിക്കണം ഇത് ഒരു റിങ്ങാണോ അതാണ് ചോദ്യം ഇതൊരു റിങ്ങാണോ 1 ഉണ്ടെന്നും 0 ഉണ്ടെന്നും നമ്മൾ ഇതിനകം പരിശോധിച്ചു അഡിഷനും ഗുണനത്തിനും കീഴിൽ ക്ലോസ്ഡ് ആണോ എന്ന് പരിശോധിക്കാം നിങ്ങൾക്ക് a2n ഉണ്ട് നിങ്ങൾ അഡിഷൻ എടുക്കുകയാണെങ്കിൽ a2mb2n2nm ലഭിക്കും ഇത് റിങ്ങിൽ ഉണ്ട് കാരണം അത് 2nm ആണ് ഇപ്പോൾ അത് ശരിയായ രൂപത്തിലാണോ അതെ ഇത് മുമ്പത്തെപ്പോലെ തന്നെ ഇത് ലളിതമായ രൂപത്തിലല്ല പക്ഷേ നിങ്ങൾക്ക് പൊതുവായ എലെമെന്റ്സ്കൾ റദ്ദാക്കാൻ കഴിയും ഡിനോമിനേറ്ററിന്റെ ഘടകം മാത്രമാണ് 2 അത്തരം ചില എലെമെന്റ്സ്കൾ നിങ്ങൾ റദ്ദാക്കുകയാണെങ്കിൽ നിങ്ങൾ തുടരും അപ്പോൾ അവശേഷിക്കുന്നത് ഫോം 2 പവർ എന്തോ ആയിരിക്കും അതുപോലെ നിങ്ങൾ പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ ab2nm ലഭിക്കും ഇത് റിങ്ങിൽ ഉണ്ട് കാരണം അത് 2nm ആണ് ഇത് എന്തായാലും പ്രധാനമല്ല ഡിനോമിനേറ്റർ 2 ന്റെ പവർ ആണ് നിങ്ങൾ റദ്ദാക്കേണ്ടിവന്നാൽ പോലും അവശേഷിക്കുന്നത് 2 ന്റെ പവർ ആയിരിക്കും ഇത് R ലാണ് ഇത് ക്ലോസ്ഡ് ആണ് അഡിഷനു കീഴിൽ ക്ലോസ്ഡ് ആണ് ഗുണനത്തിന് കീഴിൽ ക്ലോസ്ഡ് ആണ് R ഒരു റിങ്ങാണ് ഞാൻ നിങ്ങൾക്കായി പരിശോധന ഉപേക്ഷിക്കും R ഒരു റിങ് ഇവ ചില ഉദാഹരണങ്ങളാണ് തന്നിരിക്കുന്ന കുറച്ച് സെറ്റുകൾ റിങ്ങുകളാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ പരിശോധിക്കാമെന്ന് കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ അടുത്ത പ്രശ്നവുമായി തുടരുന്നതിന് നമുക്ക് ഐഡിയലുകളെക്കുറിച്ച് എന്തെങ്കിലും നോക്കാം ഇത് ഇതുമായി ബന്ധപ്പെട്ട ഒന്നാണ് ഇത് രണ്ടാമത്തെ പ്രശ്നമാണ് ഇത് ഹോമോമോർഫിസവും ആശയങ്ങളുമായി ബന്ധപ്പെട്ട ഒന്നാണ് ഗ്രൂപ്പ് റിംഗ് ഹോമോമോർഫിസം എന്താണെന്ന് ഓർക്കുക R മുതൽ R' വരെയുള്ള ഒരു റിംഗ് ഹോമോമോർഫിസമാണെന്ന് നമുക്ക് പറയാം φ R മുതൽ R' വരെയുള്ള ഒരു റിംഗ് ഹോമോമോർഫിസമാണെന്ന് പറയട്ടെ കേർണൽ എന്താണെന്ന് ഓർമ്മിക്കുക അത് R' ലെ 0 ലേക്ക് മാപ്പ് ചെയ്യുന്ന R ലെ എല്ലാ എലെമെന്റുകളുടെയും സെറ്റാണ് കേർണൽ ഇത് കേർണലിന്റെ നിർവചനമാണ് അതിനെ നമ്മൾ അനുയോജ്യമായ രീതിയിൽ വിളിക്കുന്നുവെന്ന് നമുക്കറിയാം ഇവിടെ കാണിക്കുന്നത് കേർണൽ φ 0 ആണെങ്കിൽ മാത്രം φ ഇൻജക്ഷൻ ആണ് എന്നാണ് നിങ്ങൾ ഗ്രൂപ്പ് തിയറിയിൽ ഒരു കോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തും ഇത് നിങ്ങൾക്കുള്ള ഒരു പരാമർശമാണ് ഇത് സമാനമാണ് ഗ്രൂപ്പ് ഹോമോമോർഫിസത്തിലെ അതേ പ്രശ്നമാണിത് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനാൽ ഞാൻ അത് ഇവിടെ എഴുതട്ടെ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഹോമോമോർഫിസം ഉണ്ടെങ്കിൽ അത് ഒരു റിങ് കേർണൽ എന്ന ആശയം ഉൾക്കൊള്ളുന്നു കേർണൽ 0 ആണെങ്കിൽ മാത്രമേ ഗ്രൂപ്പ് ഹോമോമോർഫിസം ഒരു ഇൻജക്റ്റീവ് മാപ്പ് ആകുകയുള്ളൂ കൂടാതെ ഒരു എലമെന്റ് കേർണലിലാണോ അല്ലയോ എന്നത് ശരിക്കും ഇവിടെ ഒരു ഗ്രൂപ്പ് സൈദ്ധാന്തിക പ്രശ്നമാണ് R ലെ ഗുണനവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ലാത്തതിനാൽ R ൽ അഡിഷനുമായി ബന്ധപ്പെട്ട് എല്ലാം R ഒരു ഗ്രൂപ്പാണ് കൂടാതെ φ ഇൻജക്ഷൻ ആണോ അല്ലയോ എന്നത് ഒരു സെറ്റ് തിയററ്റിക് പ്രോപ്പർട്ടി ആണ് ഈ പ്രശ്നം ഞാൻ വേഗത്തിൽ പരിഹരിക്കട്ടെ എന്താണ് ഇൻജക്ഷൻ അർത്ഥമാക്കുന്നത് അതിനാൽ ഇൻജക്ഷൻ അർത്ഥമെന്താണെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കണം നിങ്ങൾ ഇത് മറന്ന സാഹചര്യത്തിൽ φ ഇൻജെക്റ്റീവ് ആണ് നിർവചനം രണ്ട് വ്യത്യസ്ത എലെമെന്റ്സ്കൾ രണ്ട് വ്യത്യസ്ത എലെമെന്റ്കളിലേക്ക് പോയാൽ φ ഇൻജെക്റ്റീവ് ആണ് φ φ ആണെങ്കിൽ a b തുല്യമാണെങ്കിൽ സൂചിപ്പിക്കുന്നത് ശരിയാണ് R മാപ്പിന്റെ രണ്ട് എലെമെന്റുകൾ ഒരേ എലെമെന്റിലേക്ക് മാപ് ചെയ്തില്ല എങ്കിൽ φ ഇൻജക്ഷൻ ആണ് ആരംഭിക്കുന്നതിന് ഈ രണ്ട് എലെമെന്റ്സ്കളും തുല്യമാണ് നമുക്ക് ഇപ്പോൾ തെളിയിക്കാം φ ഇൻജക്ഷനാണെന്ന് കരുതുക കേർണൽ ഫൈ 0 ആണെന്ന് കാണിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ആദ്യം നമുക്ക് φ 0 ആണെന്ന് അറിയാമെന്ന് കരുതുക ഫൈ ഒരു ഹോമോമോർഫിസം ശരിയാണെന്ന് ഞാൻ എഴുതാം ഇത് ഒരു റിംഗ് ഹോമോമോർഫിസമാണ് പ്രത്യേകിച്ചും ഇത് ഒരു ഗ്രൂപ്പ് ഹോമോമർഫിസം ആണ് ഇത് അഡിറ്റീവ് ഐഡന്റിറ്റിയിലേക്ക് അഡിറ്റീവ് ഐഡന്റിറ്റി അയയ്ക്കുന്നു ഇപ്പോൾ 'a' φ യുടെ കേർണലിലാണെന്ന് കരുതുക φ 0 ആണ് പക്ഷേ 0 എന്നത് 0 ന്റെ phi ആണ് ഇൻജെക്ഷൻ മാപ്പുകൾ നിർവ്വചനം അനുസരിച്ചു a 0 ആണ് അതായത് കേർണൽ ഫൈയുടെ ഏക എലമെന്റ് 0 ആണ് ഞാൻ കേർണൽ ഫൈയുടെ ഒരു എലമെന്റ് a എടുക്കുകയും a0 ആണെന്ന് തെളിയിക്കുകയും ചെയ്യുകയും ചെയ്തു അതിനാൽ അതിനർത്ഥം കേർണൽ ഫൈ 0 ന് തുല്യമാണ് തീർച്ചയായും 0 കേർണലിലാണ് കാരണം 0 ന്റെ phi 0 ആണ് കേർണൽ എന്നത് വെറും 0 എലമെന്റ് മറ്റൊന്നുമില്ല ഇപ്പോൾ കേർണൽ ഫൈ 0 ആണെന്ന് കരുതുക ഫൈ ഇൻജക്റ്റീവ് ആണെന്ന് കാണിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ശരി മുമ്പത്തെ അതേ ആശയങ്ങൾ ഉപയോഗിച്ച് ഇതും നേരെയാണ് നമ്മൾക്ക് ഫൈ ഇൻജക്റ്റീവ് ആണെന്ന് കാണിക്കാൻ താൽപ്പര്യമുണ്ടെന്ന് കരുതുക φ φ അനുവദിക്കുക ഇൻജക്റ്റിവിറ്റിയുടെ നിർവചനം a യുടെ phi b യുടെ phi ന് തുല്യമാണെങ്കിൽ a എന്നത് b ന് തുല്യമാണെന്ന് കാണിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു a യുടെ phi b യുടെ phi ന് തുല്യമാണെങ്കിൽ ഞാൻ ഇത് ഇതുപോലെ എഴുതാം റിംഗ് ഹോമോമോർഫിസത്തിന്റെ നിർവചനം അനുസരിച്ച് യുടെ ഫൈ 0 ന് തുല്യമാണ് കാരണം φ φ ആണ് അതായത് a b കേർണൽ ഫൈയിലാണ് ഇത് വീണ്ടും കേർണലിന്റെ നിർവചനമാണ് a b കേർണലിലാണെങ്കിൽ കേർണൽ 0 എലെമെന്റാണെന്നു ഞാൻ അനുമാനിച്ചു a - b 0 ന് തുല്യമാണ് അതായത് a b ക്ക് തുല്യമാണ് ഈ മുഴുവൻ കാര്യവും സൂചിപ്പിക്കുന്നത് φ ഒരു ഇൻജക്ഷൻ ആണ് എന്നാണ് പ്രശ്നം പരിഹരിച്ചു ഈ തെളിവിൽ ഒരിടത്തും നമ്മൾ R ൽ ഗുണനം ഉപയോഗിച്ചിട്ടില്ല എന്ന അന്തിമ പരാമർശം മാത്രമേ ഞാൻ നടത്തുകയുള്ളൂ R എന്നത് ഗുണനങ്ങളുള്ള ഒരു റിങ്ങുകളാണെന്ന വസ്തുത ഈ പ്രശ്നത്തിന് തികച്ചും അപ്രസക്തമാണ് നമ്മൾക്ക് അഡിഷൻ ഘടന മാത്രമേ ആവശ്യമുള്ളൂ ഒരു കേർണൽ 0 ആണെങ്കിൽ മാത്രമേ ഒരു റിംഗ് ഹോമോമോർഫിസം ഇൻജക്ഷൻ ആകുകയുള്ളൂവെന്ന് നമ്മൾ തെളിയിച്ചിട്ടുണ്ട് അടുത്ത പ്രത്യേക പ്രശ്നങ്ങളിൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നമ്മൾ ഈ പ്രശ്നം ഉപയോഗിക്കും ഞാൻ ഈ വീഡിയോ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കും